ഇത് കോമൺ സോർസ് ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ ഇക്യുവാലെൻറ് ആണ് ഇതിൽ C 1 C 2 എന്ന ഈ രണ്ട് കപ്പാസിറ്ററുകൾ ഉണ്ട് C 1 C 2 എന്നിവ വലുതാണെന്ന് അനുമാനിച്ചുകൊണ്ടാണ് നേരത്തെ വിശകലനം നടത്തിയിരുന്നത് അവ അനന്തമായി വലുതാണെങ്കിൽ അവ ഷോർട്ട് സർക്യൂട്ടുകൾ പോലെ പ്രവർത്തിക്കുന്നു അവ എത്ര വലുതായിരിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് കാണാം കപ്പാസിറ്ററുകളും ഇൻഡക്റ്ററുകളും ഉള്ള സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിന് നമ്മൾ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് നടത്തേണ്ടതുണ്ട് ഇൻപുട്ട് V s ഒമേഗ ഫ്രീക്വൻസിയിൽ സിനുസോയിഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം സിനുസോയ്ഡൽ അനാലിസിസ് നടത്തുമ്പോൾ എല്ലാ വോൾട്ടേജും കറൻറും നമ്മൾ ഫേസർ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നുവെന്ന് നമുക്ക് അറിയാം അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് അനുയോജ്യമായ ഫേസറാണ് ഇത് നമുക്ക് R s ഉണ്ട് C 1 എന്നുപറയുന്നത് 1 j ⍵ C1 എന്ന ഒരു ഇംപിഡെൻസായിരിക്കും ഇവിടെ ഈ വോൾട്ടേജ് VGS നെ ഞാൻ VGS എന്ന ഫേസറായി പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V o ആണ് നമുക്ക് ഈ വോൾട്ടേജ് പിന്നീട് ആവശ്യമായി വരും ഞാൻ അതിനെ V D എന്നു വിളിക്കുന്നു അതിനാൽ ഇത് ഇൻക്രിമെന്റൽ ഡ്രെയിൻ വോൾട്ടേജ് ഫേസർ അല്ലെങ്കിൽ ഡ്രെയിനും സോഴ്സിനും ഇടയിലുള്ള വോൾട്ടേജാണ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സിനുസോയ്ഡൽ ഫേസർ അനാലിസിസ് എന്താണെന്ന് മനസിലായെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇല്ലെങ്കിൽ ദയവായി ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലേക്ക് പോയി ഈ അടിസ്ഥാന കാര്യങ്ങൾ ഓർമ്മ പുതുക്കുക ഇപ്പോൾ ഈ കറൻറ് സോഴ്സ് എന്തായാലും g m തവണ V G S ആണ് ഇത് ഫേസാറാണ് ഇപ്പോൾ Vs ഈ ഇംപിഡെൻസുകൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു കൂടാതെ R 1 ∥ R 2 നമുക്ക് V G S നല്കുന്നു കൂടാതെ V G S നിങ്ങൾക്ക് V൦ നല്കുന്നു അതിനാൽ ഈ രണ്ട് എക്സ്പ്രഷനുകളും ഞാൻ ഒന്നൊന്നായി വിലയിരുത്താം അടിസ്ഥാനപരമായി V G S V s കൂടാതെ V o V G S ആണുള്ളത് അതിനാൽ എനിക്ക് V o V s കിട്ടുന്നതിനായി എല്ലാ കാര്യങ്ങളും സംയോജിപ്പിക്കാം ഞാൻ ഇവ രണ്ടും ഗുണിച്ചാൽ എനിക്ക് V s V o ലഭിക്കും ദൈർഘ്യമേറിയ എക്സ്പ്രഷൻ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് ഞാൻ ഇതിൽ ഉറച്ചുനിൽക്കുന്നത് അതിനാൽ നിങ്ങൾ ശരിയായി വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് കാണാം VGS Vs അടിസ്ഥാനപരമായി V s ന്റെ ഫ്രാക്ഷൻ V G S ആയി ദൃശ്യമാകുന്നു ഇത് R 1 പാരലൽ R 2 ഡിവൈഡെഡ് ബൈ R 1 പാരലൽ R 2 പ്ലസ് R s പ്ലസ് വൺ ബൈ j ഒമേഗ C 1 നു സമാനമാണ് ഇത് ഇങ്ങനെയും എഴുതാൻ പറ്റും j ഒമേഗ C 1 R 1 പാരലൽ R 2 ഡിവൈഡെഡ് ബൈ 1 പ്ലസ് j ഒമേഗ C 1 R 1 പാരലൽ R 2 പ്ലസ് R s ഇപ്പോൾ C 1 വളരെ വലുതാണെന്നതു കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ V s VGS എന്നുപറയുന്നത് ഈ R 1 പാരലൽ R 2 ഡിവൈഡെഡ് ബൈ R 1 പാരലൽ R 2 പ്ലസ് R s റെസിസ്റ്ററുകളുടെ അനുപാതമാണെന്ന് നമുക്ക് അറിയാം ഈ ഭാഗം നോക്കിയാൽ ഒരു കാര്യം നമുക്ക് എളുപ്പം മനസിലാകും ഒമേഗ C 1 ഗുണനം R 1 പാരലൽ R 2 പ്ലസ് R s എന്നത് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഹാരകത്തിലെ ഇതിനെ അവഗണിക്കാം കൂടാതെ ഈ j ⍵ C1 വെട്ടിപ്പോകും കൂടാതെ ഈ എക്സ്പ്രെഷൻ ചെറുതായി R 1 പാരലൽ R 2 ഡിവൈഡെഡ് ബൈ R 1 പാരലൽ R 2 പ്ലസ് R s ആയി മാറും ഇതാണ് റെസിസ്റ്റീവ് ഡിവൈഡർ എക്സ്പ്രെഷൻ അതിനാൽ കപ്പാസിറ്റർ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമാണിത് അല്ലെങ്കിൽ C 1 എന്നത് വൺ ബൈ ഒമേഗ R 1 പാരലൽ R 2 പ്ലസ് R s എന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതുകയാണെങ്കിൽ R 1 ∥ R 2 R s നേക്കാൾ കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് 1 ⍵ C1 വളരെ കുറവായിരിക്കും ഇതാണ് C 1 ന്റെ മാനദണ്ഡം സർക്യൂട്ടിന്റെ കാര്യത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഈ V s പൂജ്യമായി കുറച്ചാൽ അതായത് സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ട് ശൂന്യമാകുമ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഈ എക്സ്പ്രഷനിൽ നിങ്ങൾ കാണുന്ന R s R 2 ∥ R 1 ആണ് C 1 നു കുറുകെ കാണുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ വീണ്ടും ഓർമിക്കുകയാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റിനെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ വിലയിരുത്തുന്ന രീതി ഒരു കപ്പാസിറ്ററിനു കുറുകേയുള്ള റെസിസ്റ്റൻസ് നോക്കിയാണ് അതിനാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ ഞാൻ പെട്ടന്ന് പറയേണ്ട ഒരു കാര്യം എന്താണെന്നു വച്ചാൽ ഇത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ് എന്നാൽ രണ്ട് പ്രത്യേക ഫസ്റ്റ് ഓർഡർ സിസ്റ്റങ്ങൾ ഇവിടെ വേർതിരിച്ച് വച്ചിട്ടുണ്ട് അതിനാൽ ഇത് രണ്ട് പ്രത്യേക ഫസ്റ്റ് ഓർഡർ സിസ്റ്റങ്ങളായി കണക്കാക്കുന്നതിൽ കുഴപ്പമില്ല അതിനാൽ ഇതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് കപ്പാസിറ്ററിനു കുറുകേയുള്ള റെസിസ്റ്റൻസ് കണ്ടെത്തുകയും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആ റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് പറയാനുള്ള മറ്റൊരു മാർഗ്ഗം ടൈം കോൺസ്റ്റന്റ് ഫ്രീക്വെൻസിയുടെ റെസിപ്രോക്കലിനേക്കാൾ വളരെ കൂടുതലാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഞാൻ ഇവിടെ ഫ്രീക്വെൻസി എന്ന് പറയുമ്പോൾ ഈ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് അതിനാൽ ദയവായി ഇത് ഓർമ്മിക്കുക അതിനാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം ഒരേ കാര്യം അർത്ഥമാക്കുന്നു അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തണം അതിനാൽ C1 കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് എന്നുപറയുന്നത് R s R 1 ∥ R2 വിനെക്കാൾ വളരെ കുറവാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി അപ്പോൾ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതാണ് വേണ്ടത്ര വലിയ കപ്പാസിറ്റർ എന്നതുകൊണ്ട് നമ്മൾ ആർത്ഥമാക്കുന്നത് പ്രായോഗികമായി ഇവിടെ നമുക്കൊരു അസമത്വം ഉണ്ട് അതായത് C 1 എന്നുപറയുന്നത് വൺ ബൈ ഒമേഗ ടൈംസ് R 1 ∥ R 2 R s നേക്കാൾ വളരേ വലുതാണ് അതിനാൽ C 1 നായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യഥാർത്ഥ മൂല്യം എന്താണ് അതിനാൽ ഈ എക്സ്പ്രെഷൻ നിങ്ങൾ വിലയിരുത്തിയെന്ന് വിചാരിക്കുക ഇത് 10 നാനോ ഫാരഡ് ആയി കിട്ടുന്നു ഇപ്പോൾ C1 എന്തായിരിക്കണം ഇത് ഒരു വൺ മൈക്രോ ഫാരഡാണെങ്കിൽ ഇത് ഇതിനേക്കാൾ കൂടുതലാണ് ഇത് ഒരു വൺ മില്ലി ഫാരഡ് ആണെങ്കിൽ ഇതും ഇതിനെക്കാൾ വളരെ കൂടുതലാണ് എന്നാൽ തീർച്ചയായും C 1 ഈ നിയന്ത്രണങ്ങളേക്കാൾ പത്തിരട്ടി ആണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല പത്ത് തവണ 10 നാനോ ഫാരഡ് 100 നാനോ ഫാരഡിന് തുല്യമാണ് അത് മതിയാകും അല്ലെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടി കൂട്ടാം പക്ഷേ നിങ്ങൾ ഇത് ആയിരം തവണ പോലെയൊന്നും ആക്കാൻ പാടില്ല